ഈ വീഡിയോ ക്യാപ്സ്യൂളിൽ ഒറ്റപ്പെട്ട കൺവെർട്ടറുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഒറ്റപ്പെടാത്ത ബക്ക് ബൂസ്റ്റ് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറുകൾ പോലെ അവയെ പ്രൈമറി കൺവെർട്ടറുകൾ എന്ന് വിളിക്കപ്പെടുന്നു പ്രൈമറി കൺവെർട്ടറുകളിൽ നിന്ന് വേറെ കൺവെർട്ടറുകൾ ഉരുതിരിയുന്നു അവയെ ഡിറൈവ്ഡ് കൺവെർട്ടറുകൾ എന്ന് വിളിക്കുന്നു ഡിറൈവ്ഡ് കൺവെർട്ടറുകളിൽ ഒറ്റപ്പെട്ട കൺവെർട്ടറുകളും ഭാഗമാണ് നമുക്ക് പരിചയപ്പെടാം ഈ സെഷനിൽ ഈ ആഴ്ചയിലെ സെഷനിൽ ഒരു പ്രധാന ഘടകമായ ട്രാൻസ്ഫോർമറിനെ കുറിച്ച് നോക്കാം ഉയർന്ന ഫ്രീക്വൻസി ട്രാൻസ്ഫോർമർ ഡിറൈവ്ഡ് കൺവെർട്ടറുകളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും ട്രാൻസ്ഫോർമറുകൾ 2 പ്രധാന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഒന്ന് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഭാഗത്തിനും ഇൻപുട്ട് ഭാഗത്തിനും വേർപെടുത്തൽ നൽകുക എന്നതാണ് അതായത് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഭാഗത്തിനും ഇൻപുട്ട് ഭാഗത്തിനും ഇടയിൽ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ അഥവാ ഗാൽവാനിക് ഐസൊലേഷൻ നൽകുക മറ്റൊരു പ്രധാന സവിശേഷതയാണ് ടെംസ് റേഷ്യയോ ടെംസ് റേഷ്യയോ ഉചിതമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് വിശാലമായ പ്രവർത്തന ശ്രേണി ഉണ്ടായിരിക്കാൻ നമ്മൾ തീർച്ചയായും ട്രാൻസ്ഫോർമറിന്റെ രൂപകൽപ്പന വൈദ്യുതമായും കാന്തികമായും നോക്കും കൂടാതെ കോർ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും വൈൻഡിംഗുകൾ രൂപകൽപ്പന ചെയ്യാമെന്നും നോക്കാം കൂടാതെ ചില കാന്തിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ നോക്കും അത് കോഴ്സ് സാച്ചുറേഷൻ പോലെയും അതുപോലുള്ള കാര്യങ്ങൾ പോലെയും വരും ഇൻഡക്ടർ പോലും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച ഡിസൈൻ മൂല്യങ്ങൾ എടുക്കും ഇൻഡക്റ്റർ നിർമ്മിക്കാം ഫിസിക്കൽ ഇൻഡക്റ്റർ ഇൻഡക്റ്ററിനായി നമ്മൾ കോർ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നമ്മൾ വൈൻഡിംഗുകൾ നിർണ്ണയിക്കുകയും എയർ വിടവ് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് കാണുകയും വേണം ഈ ഭൌതിക പ്രശ്നങ്ങളും കാന്തിക പ്രശ്നങ്ങളും ഈ കോഴ്സിൽ അഭിസംബോധന ചെയ്യും അതിനാൽ ഈ ആഴ്ച ഈ ഒറ്റപ്പെട്ട കൺവെർട്ടറുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ട്രാൻസ്ഫോർമറും ഇൻഡക്ടറും പോലുള്ള കാന്തിക ഘടകങ്ങളായ ഐസൊലേഷൻ ഘടകങ്ങളിൽ അൽപ്പം കൂടുതൽ ഊന്നൽ നൽകും അതിനാൽ ബക്ക് ഡിറൈവ്ഡ് കൺവെർട്ടറുകളിൽ ഒന്നായ ഫോർവേഡ് കൺവെർട്ടറിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും മറ്റ് ബക്ക് ഡിറൈവ് കൺവെർട്ടറുകൾ പുഷ് പുൾ ഹാഫ് ബ്രിഡ്ജും ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടറുകളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന കൺവെർട്ടറിന്റെ മറ്റൊരു വകുപ്പ് ബക്ക് ബൂസ്റ്റ് വകുപ്പാണ് ഏറ്റവും ജനപ്രിയമായ ബക്ക് ബൂസ്റ്റ് ഡിറൈവ്ഡ് കൺവെർട്ടറുകളിൽ ഒന്നാണ് ഫ്ലൈ ബാക്ക് കൺവെർട്ടർ അത് വളരെ ജനപ്രിയമാണ് മാത്രമല്ല മിക്ക വാണിജ്യ പവർ സപ്ലൈകളിലും നിങ്ങൾക്ക് ഇത് കാണാം അതിനാൽ നമ്മൾ തീർച്ചയായും അത് നോക്കേണ്ടതും കാണേണ്ടതുമാണ് അതിന്റെ കാന്തിക ഘടകങ്ങളും ഐസൊലേഷൻ ഘടകങ്ങളും എങ്ങനെ രൂപകൽപന ചെയ്യുമെന്ന് പരിശോധിക്കും നമ്മൾ തീർച്ചയായും സിമുലേഷൻ നോക്കും സീസിയം ഉപയോഗിച്ച് ഈ ക്യാപ്ച്ചറിലൂടെ ഘടിപ്പിച്ച കുറച്ച് ഉദാഹരണ സർക്യൂട്ടുകൾ നമ്മൾ എടുക്കും തുടർന്ന് ngSpice എഞ്ചിൻ ഉപയോഗിച്ച് അത് സിമുലേറ്റർ ചെയ്യുകയും ഫലങ്ങൾ നോക്കുകയും സർക്യൂട്ടുകളെ കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ ലഭിക്കുമോ എന്ന് നോക്കുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പരിചിതമായ ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് ആണ് നമ്മൾ ഈ നോൺ ഐസൊലേറ്റഡ് ബക്ക് കൺവെർട്ടറിൽ നിന്ന് ആരംഭിക്കുകയും ഫോർവേഡ് കൺവെർട്ടർ വികസിപ്പിക്കുകയും ചെയ്യും ഇത് ഒരു ഐസൊലേറ്റഡ് കൺവെർട്ടറും ഈ ബക്ക് കൺവെർട്ടറിൽ നിന്ന് ഉരുത്തിരിഞ്ഞതുമാണ് എല്ലാ ബക്ക് ഡിറൈവ്ഡ് കൺവെർട്ടറുകൾക്കും ഔട്ട്പുട്ട് കോ പോർഷൻ ഉണ്ടായിരിക്കും ഇത് ഡയോഡ് ഇൻഡക്ടർ കപ്പാസിറ്റർ ലോഡ് കോമ്പിനേഷൻ പോലെയായിരിക്കും ഈ ഭാഗം എല്ലാ ബക്ക് ഡിറൈവ്ഡ് കൺവെർട്ടറുകളുടെയും ഔട്ട്പുട്ട് വശത്തിന്റെ പ്രധാന സവിശേഷതയായിരിക്കും ഇൻപുട്ട് ഭാഗങ്ങളിൽ മാറ്റമുണ്ടാകും ചില ഘടകങ്ങൾ പുനഃക്രമീകരിച്ചുകൊണ്ട് ആദ്യം നമുക്ക് ട്രാൻസ്ഫോർമർ എവിടെ സ്ഥാപിക്കാമെന്ന് നോക്കാം ഇപ്പോൾ ഇതാണ് ബക്ക് കൺവെർട്ടർ നമ്മൾ സപ്പ്ളൈയിന്റെ പോസിറ്റീവ് ആമിൽ സ്വിച്ച് ഇട്ടു ഈ മുഴുവൻ ബക്ക് കൺവെർട്ടർ സർക്യൂട്ടിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതെ തന്നെ നമുക്ക് ഈ സ്വിച്ച് നെഗറ്റീവിലോ കറണ്ടിന്റെ റിട്ടേൺ പാതയിലോ ഇടാം ഉദാഹരണത്തിന് നമുക്ക് അത് ചെയ്യാം ഞാൻ ഇത് താഴേക്ക് നീക്കട്ടെ ഇത് മുകളിലേക്ക് നീക്കട്ടെ ഈ ദിശയിലേക്ക് കറന്റ് ഒഴുകുകയും അത് ഈ ദിശയിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന റിട്ടേൺ പാതക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ ഇത് റിവേഴ്സ് ചെയ്യാം അതിനാൽ ട്രാൻസിസ്റ്റർ ഇപ്പോൾ ഇണങ്ങുകയും വൈദ്യുത പ്രവാഹത്തിന്റെ പ്രവർത്തനവുമായി ശരിയാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത് ഇപ്പോഴും പഴയ ബക്ക് കൺവെർട്ടർ തന്നെയാണ് പ്രവർത്തനം സമാനമാണ് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ V പൊട്ടൻഷ്യൽ ഡയോഡിൽ ഉടനീളം വരുന്നതായി നിങ്ങൾ കാണും ഡയോഡ് ഓഫാകുകയും V പൊട്ടൻഷ്യൽ ഇൻഡക്റ്ററിൽ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു ഇൻഡക്റ്ററിൽ ഉടനീളമുള്ള വോൾട്ടേജ് ഇവിടെ Vin ആണ് ഇവിടെ മൈനസ് Vo അതിനാൽ dTs കാലയളവിൽ ഇത് Vin Vo ആണ് ഇത് ഓഫായിരിക്കുമ്പോൾ ഇവിടെ റിട്ടേൺ കറന്റ് ഇല്ല ഇൻഡക്ടറിലെ കറന്റ് ഒഴുക്ക് ഔട്ട്പുട്ട് കപ്പാസിറ്ററിലൂടെയും ലോഡിലൂടെയും ഫ്രീ വീലിംഗ് നടത്തുന്നു ഇത് ചാലകം ചെയ്യുന്നു ഇത് 0 ആണ് ഇത് 0 മൈനസ് Vo ആണ് Vo L എന്നത് കറന്റ് കുറയുന്ന നിരക്കാണ് അതിനാൽ ബക്ക് കൺവെർട്ടറിന്റെ പതിവ് പ്രവർത്തനം അതേപടി തുടരുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധവും അതേപടി നിലനിൽക്കുന്നു നമ്മൾ ചെയ്തത് പോസിറ്റീവ് റെയിലിൽ നിന്ന് മാറി എന്നതാണ് ഇത് ചെയ്യുന്നതിനായി നമ്മൾ പോസിറ്റീവ് റെയിലിൽ നിന്ന് നെഗറ്റീവ് റെയിലിലേക്ക് സ്വിച്ച് മാറ്റി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗ്രൌണ്ട് പോയിന്റ് അഥവാ സപ്പ്ളൈയിന്റെ നെഗറ്റീവ് പോയിന്റുമായി അപേക്ഷിച്ച് നമ്മൾ പരാമർശിച്ചിരിക്കുന്ന ഗേറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ബേസ് ഡ്രൈവ് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ BJT അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിനെ ഇനിപ്പറയുന്ന രീതിയിൽ വീണ്ടും സ്ഥാപിക്കും ഞാൻ ഈ BJT സ്വിച്ചിൽ ക്ലിക്കുചെയ്ത് ഈ രീതിയിൽ അഭിമുഖീകരിക്കുന്ന തരത്തിൽ ഇത് തിരിക്കാൻ അനുവദിക്കുക കൂടാതെ ഇത് ഇത്തരത്തിലുള്ള ഒരു ടോപ്പോളജിയിലാണെന്ന് ഞാൻ സ്ഥാപിക്കട്ടെ ഇപ്പോൾ ഞാൻ ചില ലേബലുകൾ ഇടും സ്പൈസിൽ ചെയ്യുന്നതുപോലെ ഇതൊരു ലേബൽ ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം ഇതാണ് Vin സപ്പ്ളൈയിന്റെ പോസിറ്റീവ് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം ഇതാണ് ഗ്രൌണ്ട് ഇപ്പോൾ എനിക്ക് ഇത് ആവശ്യമില്ല ഞാൻ ഈ ഭാഗങ്ങൾ നീക്കം ചെയ്യും അതിനാൽ ഇത് ഇപ്പോഴും പഴയ ബക്ക് കൺവെർട്ടർ തന്നെയാണ് പ്രവർത്തനം ഇപ്പോഴും അതേപടി തുടരുന്നു ഈ BJT സ്വിച്ച് അത് ഓണായിരിക്കുമ്പോൾ ഡയോഡിലുടനീളം ദൃശ്യമാകുന്ന ഒരു വോൾട്ടേജ് Vin ഉണ്ട് ഡയോഡിനെ റിവേഴ്സ് ബയസ് ചെയ്യുന്നു ഇൻഡക്ടറിലൂടെ കറന്റ് ഒഴുകുന്നു ഇൻഡക്റ്റർ ചാർജ് ചെയ്യപ്പെടുന്നു ഈ രീതിയിൽ തിരികെ ഒഴുകുകയും ചെയ്യുന്നു ഈ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സർക്യൂട്ടിലൂടെ ഇൻഡക്റ്റർ ഫ്രീ വീൽ ചെയ്യുന്നു പ്രവർത്തനം അതേപടി തുടരുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധവും അതേപടി തുടരുന്നു ഇപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ഫോർമർ അവതരിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ട്രാൻസ്ഫോർമർ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഉചിതമായ സ്ഥലമാണിത് നമ്മൾ ഡയോഡ് ഉള്ളിലേക്ക് തള്ളുകയും ട്രാൻസ്ഫോർമർ അവിടെ സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡയോഡ് ഇതുപോലെ ഉള്ളിലേക്ക് നീക്കാം ട്രാൻസ്ഫോർമർ ഇവിടെ അവതരിപ്പിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാക്കാം അതിനാൽ ഞാൻ അത് ഇവിടെ ഈ രീതിയിൽ സ്ഥാപിക്കട്ടെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമർ ആ സ്ഥലത്ത് വരും ഇപ്പോൾ ട്രാൻസ്ഫോർമർ സ്വിച്ച് ഓണായിരിക്കുമ്പോൾ അത് ശരിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് സ്വിച്ച് ഓണായിരിക്കുമ്പോൾ പ്രൈമറിക്ക് വേണ്ടി ഒരു വോൾട്ടേജ് പ്രത്യക്ഷപ്പെടുന്നു ആ പ്രൈമറി വോൾട്ടേജ് സെക്കന്ററി ആയി രൂപാന്തരപ്പെടുന്നു ഡയോഡ് വിപരീത പക്ഷപാതമാവുകയും ഇത് ചിത്രത്തിന് പുറത്താണ് ഇൻഡക്ടർ ചാർജ്ജ് ചെയ്യപ്പെടുകയും അത് തുടരുകയും ചെയ്യുന്നു സ്വിച്ച് ഓഫായിരിക്കുമ്പോൾ ഇൻഡക്ടർ ഇതുപോലെ ഫ്രീ വീലിംഗ് ആകുകയും ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ട് ആകുകയും ചെയ്യുമ്പോൾ കോർ ഫ്ളക്സിന് റീസെറ്റ് ചെയ്യാൻ അവസരമില്ല കോർ ഫ്ളക്സ് റീസെറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത സൈക്കിളിൽ നിങ്ങൾ അത് കാണും കറൻറ് ഓൺ ആകുന്ന സമയത്ത് കോറിനെ പൂരിതമാക്കാൻ ശ്രമിക്കുന്ന തരത്തിലായിരിക്കും പിന്നീട് നമുക്ക് കൂടുതൽ കാണാം എന്നാൽ സർക്യൂട്ട് പൂർത്തിയാക്കാൻ നമ്മൾ ഇവിടെ ഒരു ഡയോഡ് ചേർക്കേണ്ടതുണ്ട് ഇൻഡക്ടർ ഫ്രീ വീലിംഗ് ആയിരിക്കുമ്പോൾ ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകില്ല ഈ ഡയോഡ് സെക്കൻഡറിയിലെ ഷോർട്ട് സർക്യൂട്ട് കറന്റിനെ തടയും ഈ രീതിയിൽ ഇത് സർക്യൂട്ടിന്റെ ബക്ക് ഭാഗത്തെ വിഘടിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ അലങ്കോലങ്ങൾ മായ്ക്കട്ടെ ഞങ്ങൾ ഇനിപ്പറയുന്ന രീതിയിൽ സർക്യൂട്ട് വൃത്തിയായി ഇടാം അതിനാൽ ഇപ്പോൾ ഞാൻ അലങ്കോലങ്ങൾ മായ്ച്ചു തുടർന്ന് സർക്യൂട്ടിലേക്ക് ശരിയായി ബന്ധിപ്പിച്ചു ഇത് ഐസൊലേറ്റഡ് ബക്ക് കൺവെർട്ടറാണെന്നും ഇതിനെ ഫോർവേഡ് കൺവെർട്ടർ എന്നും വിളിക്കുന്നു അതിനാൽ ഇനി ഇതിനെ ബക്ക് കൺവെർട്ടർ എന്ന് വിളിക്കേണ്ടതില്ല ഫോർവേഡ് കൺവെർട്ടർ എന്ന് വിളിക്കണം സ്വിച്ച് ഓഫായിരിക്കുമ്പോൾ പവർ ഔട്ട്പുട്ട് ഭാഗത്തേക്ക് അയക്കുന്ന ഫ്ലൈ ബാക്ക് കൺവെർട്ടറിന്റെ രീതിക്ക് എതിരായി സ്വിച്ച് ഓണായിരിക്കുമ്പോൾ പവർ ഔട്ട്പുട്ട് ഭാഗത്തേക്ക് അയക്കുന്നത് കൊണ്ടാണ് ഫോർവേഡ് എന്ന് പറയുന്നത് അതിനാൽ ഇത് ഒരു നാമകരണം മാത്രമാണ് ഈ കൺവെൻഷനെ സാഹിത്യലോകത്ത് ഫോർവേഡ് കൺവെർട്ടർ എന്ന് വിളിക്കുന്നു അതിനാൽ നമ്മൾ ആ പേരിൽ ഉറച്ചുനിൽക്കും ട്രാൻസ്ഫോർമർ ഇവിടെ സ്ഥാപിച്ച ശേഷം നമുക്ക് ഇപ്പോൾ ഡോട്ട് പോളാരിറ്റികൾ പ്രൈമറിക്കും സെക്കൻഡറിക്കും നൽകാം അത് പ്രൈമറിക്കുള്ള ഡോട്ട് എൻഡ് ആണെന്ന് കാണാം അതുപോലെ സെക്കന്ററിക്കുള്ള ഡോട്ട് എൻഡ് ഇതാണ് ഡോട്ട് പോളാരിറ്റികൾ നൽകുന്നത് വളരെ പ്രധാനമാണ് ഓരോ ട്രാൻസ്ഫോർമറിനും നിങ്ങൾ അത് ചെയ്യേണ്ടതാണ് ഓരോ കപ്പിൾഡ് ഘടകത്തിനും നിങ്ങൾക്ക് ഇത് ഉണ്ടായിരിക്കും ഇത് അടിസ്ഥാനപരമായി സൂചിപ്പിക്കുന്നത് വിവിധ വൈൻഡിംഗുകളുടെ ആപേക്ഷിക ധ്രുവങ്ങൾ എന്നാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുമ്പോൾ നോൺ ഡോട്ട് അറ്റം ഗ്രൌണ്ടുമായും ഡോട്ട് അറ്റം Vin മായും ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ നോൺ ഡോട്ട് അറ്റവുമായി അപേക്ഷിച്ച് ഡോട്ട് അറ്റം പോസിറ്റീവ് ആയിരിക്കും അതുപോലെ സെക്കന്ററി വശത്ത് നോൺ ഡോട്ട് അറ്റവുമായി അപേക്ഷിച്ച് ഡോട്ട് അറ്റം പോസിറ്റീവ് ആയിരിക്കും കൂടാതെ ട്രാൻസിസ്റ്റർ ഓഫായിരിക്കുമ്പോൾ അവിടെ റിവേഴ്സിബിൾ പോളാരിറ്റി ഉണ്ടാകും അപ്പോൾ ഡോട്ട് അറ്റവുമായി അപേക്ഷിച്ച് നോൺ ഡോട്ട് അറ്റം പോസിറ്റീവ് ആണ് അതുപോലെ സെക്കൻഡറി വശത്തും അതിനാൽ ഓരോ ട്രാൻസ്ഫോർമറിനും നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്ന ഉയർന്ന പോളാരിറ്റി അസൈൻമെന്റുകൾ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ BJT ഓഫായിരിക്കുമ്പോൾ ട്രാൻസ്ഫോർമറിന് ഒരു കോർ റീസെറ്റ് ഫ്ലക്സ് റീസെറ്റ് പാത്ത് നൽകണം ഇവിടെ ഇൻഡക്ടർ ഫ്രീ വീലിംഗ് ആണ് ഈ ഡയോഡ് ഓഫ് ആവുകയും ട്രാൻസ്ഫോർമർ സെക്കൻഡറിയും ട്രാൻസ്ഫോർമർ പ്രൈമറിയും ഓപ്പൺ സർക്യൂട്ട് ആവുകയുമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പാത്ത് നൽകണം പുനഃസജ്ജമാക്കാനുള്ള കോർ ഫ്ലക്സ് റെസിസ്റ്റൻസ് ഡയോഡ് കോമ്പിനേഷൻ കോർ ഫ്ലക്സ് ഈ പാതയിൽ പുനഃസജ്ജമാക്കാൻ കഴിയും അതിനാൽ ഞാൻ ആദ്യം ഈ രീതിയിൽ റെസിസ്റ്ററും തുടർന്ന് ഇവിടെ ഇതുപോലെ കണക്റ്റുചെയ്യുന്ന ഒരു ഡയോഡും ഉപയോഗിക്കട്ടെ തുടർന്ന് തീർച്ചയായും ഈ രീതിയിൽ ഒരു വയർ കണക്ഷൻ ഉണ്ടാക്കി കണക്ഷൻ പൂർത്തിയാക്കുക ഇപ്പോൾ ഈ സർക്യൂട്ട് ഒരു കൺവെർട്ടർ സർക്യൂട്ടിന് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ് അതിനാൽ ഇവിടെ സ്വിച്ചും ട്രാൻസിസ്റ്ററും ഓണായിരിക്കുമ്പോൾ ഇത് ഗ്രൌണ്ട് പൊട്ടൻഷ്യലിലാണ് ഇത് Vin പൊട്ടൻഷ്യലിലാണ് ഈ ഡയോഡ് വിപരീത പക്ഷപാതം ആയിരിക്കും ഇത് മുഴുവൻ ചിത്രത്തിന് പുറത്താണ് അതിനാൽ ഈ വോൾട്ടേജ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുകയും സാധാരണ ബീമിലെ ഇൻഡക്റ്ററിന്റെ ചാർജുകൾ നൽകുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു ബക്ക് കൺവെർട്ടർ ആയിരിക്കും ആ ഘട്ടത്തിൽ സ്വിച്ച് ഓഫായിരിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ധ്രുവങ്ങളിൽ വിപരീതമായിരിക്കും ഇവിടെ ഇൻഡക്ടർ ഫ്രീ വീലിംഗ് ആണ് ഇവിടെ പ്രൈമറി വശം ഈ രീതിയിൽ ഫ്രീ വീൽ ചെയ്യുകയും അതുവഴി കോർ ഫ്ലക്സ് പുനഃസജ്ജമാക്കുകയും ചെയ്യും അതിനാൽ ഈ ഭാഗം വളരെ പ്രധാനമാണ് ഈ ഭാഗം കൂടാതെ ഈ കോർ ഈ ട്രാൻസ്ഫോർമർ ഐസൊലേറ്റഡ് ഫോർവേഡ് കൺവെർട്ടർ പ്രവർത്തിക്കില്ല അതിനാൽ ഈ ഫ്രീ വീലിംഗ് പാത വളരെ വളരെ നിർണായകമായ പാതയാണ് ഇത് ഇപ്പോൾ ഒരു നഷ്ടമായ ഫ്രീ വീലിംഗ് പാതയാണ് പിന്നീട് നഷ്ടം കുറഞ്ഞ ഫ്രീ വീലിംഗ് പാതയെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യും നമ്മൾ ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധവും തുടർന്ന് സമവാക്യങ്ങളും നോക്കേണ്ടതുണ്ട് n എന്നതിലേക്കുള്ള പരിവർത്തന അനുപാതം ഞാൻ ഇവിടെ വയ്ക്കട്ടെ ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള ഓരോ വൈൻഡിംഗിനും അല്ലെങ്കിൽ n വൈൻഡിംഗുകൾക്കും അല്ലെങ്കിൽ N2 N1 എന്നത് n ആണെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് n 1 നേക്കാൾ വലുതാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും 1 ൽ കുറവാണെങ്കിൽ സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമറും ആണ് ഇപ്പോൾ ഞാൻ ചേർത്ത ഈ ഫോർവേഡ് കൺവെർട്ടർ 1n ടേൺസ് അനുപാതമാണ് ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഇവിടെയുള്ള ഓരോ 1 ടേണിനും സെക്കന്ററിയിൽ n ടേണുകൾ ഉണ്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതിന് n 1 നേക്കാൾ വലുതായിരിക്കാം സ്റ്റെപ്പ് ഡൌൺ ചെയ്യുന്നതിന് 1 ൽ കുറവായിരിക്കാം ഇപ്പോൾ dTs കാലയളവിൽ അത് നോക്കാം അതിനാൽ dTs കാലയളവിൽ ഈ ട്രാൻസിസ്റ്റർ ഓണാണ് അപ്പോൾ ഇവിടെ വോൾട്ടേജ് എന്താണ് ഇവിടെ വോൾട്ടേജ് Vin ആണ് ഈ വശത്ത് ഉടനീളം ദൃശ്യമാകുന്ന വോൾട്ടേജ് nVin ആണ് കാരണം ടേൺസ് റേഷ്യയോ 1 n ഇപ്പോൾ nVin ബക്ക് കൺവെർട്ടറിന്റെ കോറിൽ വരുന്നു ഇവിടെ നിങ്ങൾക്ക് Vo ഉണ്ട് അതിനാൽ dTs സമയത്ത് നിങ്ങളുടെ ഇൻഡക്ടർ വോൾട്ടേജായ dTs നിങ്ങൾ കാണുന്നു Ts സമയത്ത് ഈ ട്രാൻസിസ്റ്റർ ഓഫാണ് അതിനാൽ Ts സമയത്ത് നമുക്ക് ട്രാൻസിസ്റ്റർ ഓഫ് ചെയ്യുന്നു അതിനാൽ അതായത് Ts സമയത്ത് ഇത് ഓഫാണ് ഇപ്പോൾ വിപരീത ധ്രുവത ഉള്ളതുകൊണ്ട് ഇവിടെ ഇത് പ്ലസ് ആകും ഈ ഡയോഡിലൂടെ ഒരു ഫ്രീ വീലിംഗ് ഉണ്ട് ഞാൻ ഇതിനെ ഡയോഡ് D1 എന്ന് വിളിക്കുന്നു ഇത് സീറോ വോൾട്ടിലുള്ള D1 ആണ് അനുയോജ്യമെന്ന് നമുക്ക് പറയാം നിങ്ങൾക്ക് ഇൻഡക്ടറിലുടനീളം മൈനസ് Vo ഉണ്ട് അതിനാൽ Vo ലഭിക്കുന്നു ഇപ്പോൾ അത് പൂജ്യത്തിന് തുല്യമായിരിക്കണം ഇത് നിങ്ങളെ ബക്ക് കൺവെർട്ടറിന് സമാനമായ ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധത്തിലേക്ക് നയിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു n ടേൺ ദൃശ്യമാകുന്നു എന്നൊഴിച്ച് അതിനാൽ നിങ്ങൾ Vo യ്ക്കായി മാറ്റിയെഴുതുകയും പരിഹരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് Vo ndVin ലഭിക്കും അതിനാൽ ഫോർവേഡ് കൺവെർട്ടറിനുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധമായിരിക്കും നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഇൻഡക്ടർ ഈ രീതിയിൽ ഫ്രീ വീലിംഗ് ആയിരിക്കുമ്പോൾ ഈ ഡയോഡ് ഓഫായിരിക്കുമ്പോൾ സെക്കണ്ടറി ഓപ്പൺ ആണ് പ്രൈമറിയും ഈ രീതിയിൽ ഫ്രീ വീലിംഗ് ആയിരിക്കും പ്രൈമറിയിൽ ഇത് ഡോട്ട് എൻഡ് അപേക്ഷിച്ച് പോസിറ്റീവ് ആണ് അതിനാൽ ഇവിടെ ഒരു ഫ്രീ വീലിംഗ് പ്രവർത്തനം നടക്കും ഇപ്പോൾ അത് ഫ്രീ വീലിംഗ് ആകുമ്പോൾ നമുക്ക് ഡയോഡ് അനുയോജ്യമാണെന്ന് പറയട്ടെ പ്രൈമറിയിൽ ഒരു Lm ഉണ്ട് കാന്തിക ഇൻഡക്ടൻസും പിന്നെ ഈ റെസിസ്റ്റൻസ് R ഉം ഉണ്ട് അതിനാൽ L R അനുപാതത്തിൽ ക്ഷയിക്കുന്ന ഒരു കറന്റ് ഉണ്ടാകും അതിനാൽ അത് L R മടങ്ങ് കോൺസ്റ്റന്റ് ക്രമാതീതമായി നശിക്കുന്നു അതിനാൽ അതിവേഗം ഫ്ലക്സ് ക്ഷയിക്കും അതിനാൽ ഇത് റെസിസ്റ്റൻസ് R ആണെന്ന് നമ്മൾ പറഞ്ഞാൽ Lm നിങ്ങളുടെ കാന്തിക ഇൻഡക്ടൻസാണ് ഇവിടെ കറൻറ് I ക്ക് ഒരു തരംഗ രൂപം ഉണ്ടാകും അത് τ ന്റെ ടൈം കോൺസ്റ്റന്റ് Lm R ന് തുല്യമായി വീഴാൻ തുടങ്ങും അതിനാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫാളിംഗ് ടൈം കോൺസ്റ്റന്റ് ഉണ്ടാകും അതിനാൽ ഇവിടെ 0 ൽ എത്തുമ്പോഴേക്കും കോർ ഫ്ലക്സ് ഏതാണ്ട് 0 ഫ്ലക്സിൽ എത്തിയിരിക്കും അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോർ റീസെറ്റിംഗ് കൊണ്ടുവരുന്നതിനുള്ള ഫോർവേഡ് കൺവെർട്ടറിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഡയോഡ് R കോമ്പിനേഷൻ തീർച്ചയായും ഈ R ന് ഒരു പ്രധാന പ്രശ്നമുണ്ട് അത് വിഘടിപ്പിക്കുന്നതാണ് അതിനാൽ ഇത് ഇപ്പോൾ കാര്യക്ഷമത കുറയ്ക്കും നമ്മൾ ഈ തരത്തിലുള്ള R ന്റെ കോർ റീസെറ്റിനൊപ്പം പോകും ലോസ്സി കോർ റീസെറ്റ് പിന്നീട് നിങ്ങൾക്ക് നഷ്ടം കുറഞ്ഞ കോർ റീസെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതി ഞാൻ വിശദീകരിക്കും അടുത്തതായി ഫോർവേഡ് കൺവെർട്ടറിന്റെ തരംഗ രൂപങ്ങൾ നമുക്ക് നോക്കാം അത് നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകും തുടർന്ന് അത് വിവിധ ഘടകങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മെ നയിക്കും